ഒരു ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡൽ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കി പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഐഎസ്ഡി മോഡൽ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറയാം നിരവധി ഐഎസ്ഡി മോഡലുകളിൽ നമ്മൾ ADDIE മോഡൽ തിരഞ്ഞെടുത്തു ADDIE എന്നത് അനാലിസിസ് ഡിസൈൻ ഡവലപ്മെന്റ് ഇമ്പ്ലിമെൻറ് ഇവാല്യുവേറ്റ് എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ മോഡൽ ആവർത്തനമാണെന്നും ഇത് ഒരു സിസ്റ്റം മോഡലാണെന്നും ഞങ്ങൾ പറഞ്ഞു അതിനർത്ഥം നിങ്ങൾ ധാരാളം ഫീഡ്ബാക്കുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അതിലെ ഓരോ ഘടകങ്ങളും മറ്റെല്ലാ ഘടകങ്ങളെയും സ്വാധീനിക്കുന്നു അതിനാൽ ഇത് ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലായി കണക്കാക്കണം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ അനാലിസിസ് ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ ഈ യൂണിറ്റിൽ നമ്മൾ തിരിച്ചറിയും അനാലിസിസ് ഘട്ടത്തിന്റെ ഉപപ്രക്രിയകളുടെ സ്വഭാവവും പങ്കും മനസിലാക്കുക പ്രത്യേകിച്ച് കോഴ്സ് സന്ദർഭവും അവലോകനവും കൺസെപ്റ്റ് മാപ്പും കോഴ്സ് ഔട്കമുകളും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എല്ലാത്തരം കാര്യങ്ങളിലും ഏത് തരത്തിലുള്ള പരിശീലന പരിപാടികളിലും ഏതെങ്കിലും ഔപചാരിക കോഴ്സിലും ഏതെങ്കിലും ഹ്രസ്വകാല കോഴ്സിലും പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സാധാരണ മോഡലാണ് ADDIE ഇത് സ്വമേധയാലുള്ള പരിശീലന പരിപാടികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹ്രസ്വകാല ദീർഘകാല പരിശീലന പരുപാടികളിലോ എന്തിലും പ്രയോഗിക്കാൻ കഴിയും ഓരോ ഘട്ടത്തിലെയും ഭാഷ അല്ലെങ്കിൽ ഘടകങ്ങൾ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിന്റെയും ഉപ പ്രക്രിയകൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ സന്ദർഭം നമ്മൾ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് പൂർണ്ണമായ തിരഞ്ഞെടുപ്പ് സാധ്യമാകുന്നിടത് ഇത് എഞ്ചിനീയറിംഗ് ഇതര പ്രോഗ്രാം ആണെങ്കിൽ ഈ ഉപപ്രക്രിയകൾ വ്യത്യാസപ്പെട്ടിരിക്കാം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉപപ്രക്രിയകൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഉപപ്രക്രിയകൾ പോലും ഞങ്ങളിൽ ഒരു വിഭാഗത്തിന് ഉചിതമായവയാണെന്ന് തോന്നിയതാണ് അവ അദ്വിതീയമല്ല നിങ്ങൾക്ക് ഈ ഉപപ്രക്രിയകൾ പരിഷ്കരിക്കാനും കോഴ്സിന്റെ രൂപകൽപ്പന അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന്റെ ADDIE പതിപ്പ് നിങ്ങളുടേതായി മാറ്റാൻ കഴിയും ഈ യൂണിറ്റിൽ നിങ്ങൾ ഈ മൂന്ന് ഉപ പ്രക്രിയകളും കാണും ശേഷിക്കുന്നത് നമ്മൾ പിന്നീടുള്ളതിൽ നോക്കും അനലൈസ് ഘട്ടത്തിലെ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ കോഴ്സ് സന്ദർഭവും അവലോകനവും എഴുതുന്നത് കോഴ്സിന്റെ കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കൽ എന്നിവ ഉൾപ്പെടുന്നു അവ ഓരോന്നും നന്നായി നിർവചിക്കപ്പെട്ട പ്രവർത്തനമാണ് കോഴ്സ് ഔട്കങ്ങൾ എഴുതുക ഓരോ CO കൾക്കും സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ സൃഷ്ടിക്കുക ടാക്സോണമി പട്ടികയിൽ കോഴ്സ് ഔട്കങ്ങൾ കണ്ടെത്തുക കോഴ്സിന്റെ CO PO മാട്രിക്സ് തയ്യാറാക്കുക ഓരോ കോഴ്സ് ഔട്കങ്ങങ്ങളും നിരവധി അഭിരുചികളിലേക് വിശദീകരിക്കുക എന്നിവയും അനലൈസ് ഘട്ടം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു അഭിരുചികളുടെ എണ്ണം 15 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 5 ആകാം ഇവയെല്ലാം ചെയ്തുകഴിഞ്ഞാൽ അനലൈസ് ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് സമാനരാൽ അവലോകനം ചെയ്യപ്പെടുന്നു ആ അവലോകനത്തിന് ശേഷം അവയിൽ ആവശ്യമെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു നിർദ്ദിഷ്ട അനലൈസ് ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവയാണ് കോഴ്സ് സന്ദർഭവും അവലോകനവും എഴുതുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ നോക്കാം കോഴ്സിന്റെ കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കുകയും കോഴ്സ് ഔട്കമുകൾ എഴുതുകയും ചെയ്യുന്നു ആശങ്കയുടെ സന്ദർഭം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോഴ്സ് ഒരു പ്രോഗ്രാമിന്റെ ഒരു ഘടകമാണ് മാത്രമല്ല പ്രോഗ്രാം തന്നെ ഒരു നിശ്ചിത എണ്ണം ഔട്കമുകൾ കൈവരിക്കേണ്ടതുണ്ട് അതായത് പ്രോഗ്രാം ഔട്കമുകളും പ്രോഗ്രാം സ്പെസിഫിക് ഔട്കമുകളും കൂടാതെ കോഴ്സ് മറ്റേതെങ്കിലും കോഴ്സിന് ഒരു മുൻവ്യവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു കോഴ്സ് നിർദ്ദിഷ്ട മുൻവ്യവസ്ഥകൾ വിദ്യാർത്ഥികൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കോഴ്സിനെ ഒരിക്കലും ഒറ്റക്കായി കാണാൻ കഴിയില്ല അത് എല്ലായ്പ്പോഴും ഒരു സന്ദർഭത്തിലാണ് മുഴുവൻ പ്രോഗ്രാമിനും ഒരു സന്ദർഭമുണ്ട് ഏതുതരം വിദ്യാർത്ഥികൾ വരുന്നു ഏത് തരത്തിലുള്ള പാഠ്യ ഘടകമാണ് അതിൽ ഉൾപ്പെടുന്നത് ഏതൊരു കോഴ്സിനുമുള്ള ആശങ്കയുടെ സന്ദർഭം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഒരു കോഴ്സ് പഠിക്കുന്നവർ ഒരേ പ്രായത്തിലുള്ളവരും സമാന അക്കാദമിക് പശ്ചാത്തലമുള്ളവരുമാണ് എന്നിരുന്നാലും അവരുടെ വൈജ്ഞാനിക കഴിവുകളും പ്രചോദനങ്ങളും ഗണ്യമായി വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു കോഴ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഒരേ പ്രായത്തിലുള്ളവരായിരിക്കണമെന്നില്ല വ്യവസായത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യുകയും ഗണ്യമായ അനുഭവത്തിന് ശേഷം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരിൽ ഗണ്യമായ എണ്ണം ആളുകളും പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നുള്ള ബിരുദധാരികളാകാം ചിലപ്പോൾ ജോലിചെയ്യുന്ന അമ്മമാർ തനിച്ചായിരിക്കുന്ന പിതാക്കന്മാർ തനിച്ചായിരിക്കുന്ന അമ്മമാർ ഉണ്ടായിരിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതും നടത്തുന്നതും കുറച്ച് വ്യത്യസ്തമായിരിക്കും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു കോഴ്സ് പഠിക്കുന്നവരെല്ലാം ഒരേ പ്രായത്തിലുള്ളവരാണ് അവർക്ക് സമാനമായ അക്കാദമിക് പശ്ചാത്തലമുണ്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എൻബിഎ തിരിച്ചറിഞ്ഞ പിഒകളും വകുപ്പ് തിരിച്ചറിഞ്ഞ പിഎസ്ഒകളും നേടണം കോർ കോഴ്സുകളിലൂടെയാണ് ഇവ പ്രധാനമായും നേടേണ്ടത് എൻബിഎ അക്രഡിറ്റേഷൻ പ്രക്രിയകൾക്കായി ഇലക്റ്റീവുകൾ ചിത്രത്തിൽ വരില്ല ഇലക്റ്റീവുകൾക്ക് പിഒകളുമായും പിഎസ്ഒകളുമായും യാതൊരു ബന്ധവുമില്ലെന്നല്ല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ എല്ലാ കോഴ്സുകളും മുൻകൂട്ടി രൂപകൽപ്പന ചെയ്ത 4 വർഷത്തെ പ്രോഗ്രാമിന്റെ ഘടകങ്ങളാണ് അതിനർത്ഥം ആരെങ്കിലും ഇതിനകം തന്നെ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കൂടാതെ കോഴ്സുകളുടെ ഒരു ശ്രേണി ഉണ്ട് അത് മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തതുമാണ് തന്നിരിക്കുന്ന കോഴ്സ് ഒരു പ്രോഗ്രാമിന്റെ ഘടകമാണ് എല്ലാ കോഴ്സുകളും ഒരു നിയുക്ത പാഠ്യ ഘടകമാണ് എല്ലാ കോഴ്സുകളും ഒരു സെമസ്റ്റർ ദൈർഘ്യമുള്ളതാണ് അവ മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് നടത്തണം എല്ലാ കോഴ്സുകൾക്കും സമാനമായ വിലയിരുത്തലും വിലയിരുത്തൽ സംവിധാനങ്ങളുമുണ്ട് സമാനമാണ് ഒരേപോലെയല്ല ചില പ്രോഗ്രാമുകളിൽ ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമല്ലാത്ത പ്രാഥമികമായി മാനേജുമെന്റുമായി ബന്ധപ്പെട്ട കോഴ്സ് ഒരു സെമസ്റ്റർ ദൈർഘ്യമുള്ളതായിരിക്കില്ല ഒരു മാസത്തിനുള്ളിൽ മാത്രം തീവ്രമായ രീതിയിൽ എടുക്കപെടുന്ന കോഴ്സുകൾ ചിലപ്പോൾ ഉണ്ടാകാം അവ വ്യത്യസ്തമാണ് സാധാരണയായി എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലും ഒരു കോഴ്സ് ഒരു സെമസ്റ്ററിൽ വ്യാപിച്ച് കിടക്കുന്നു ഇതിന് അഭികാമ്യമായ ചില സ്വഭാവസവിശേഷതകൾ ഉണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ എല്ലാ കോഴ്സും എല്ലാ കോഴ്സുകളും ഒരു സെമസ്റ്റർ ദൈർഘ്യമുള്ളതും മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് നടത്തപ്പെടുന്നതുമാണ് മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ പിന്തുടരുന്നു എന്ന് എടുക്കുന്നു ഇതിനെ അടിസ്ഥാനമാക്കി വേണം കോഴ്സ് സന്ദർഭവും അവലോകനവും എഴുതേണ്ടത് അതിൽ 500 മുതൽ 1500 വരെ വാക്കുകൾ ഉൾപ്പെടുത്തണം വാസ്തവത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര എഴുതുന്നത് നല്ലതാണ് ഈ കോഴ്സ് സന്ദർഭത്തിന്റെയും അവലോകനത്തിന്റെയും ഘടകങ്ങളിൽ ഇനിപ്പറയുന്നവ ഉൾപ്പെടും കോഴ്സ് ഉൾപ്പെടുന്ന വിഭാഗം ഉദാഹരണത്തിന് ഒരു കോഴ്സ് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസസ് എഞ്ചിനീയറിംഗ് സയൻസസ് പ്രൊഫഷണൽ കോർ പ്രൊഫഷണൽ എലക്ടീവ് അല്ലെങ്കിൽ ഓപ്പൺ എലക്ടീവ് എന്നീ 7 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാം സെമസ്റ്ററിൽ അത് ഒരു മുൻവ്യവസ്ഥ കോഴ്സായോ അതിന്റെ പിന്നീടുള്ള കോഴ്സായോ എടുക്കപെടാം ഉദാഹരണത്തിന് നാലാം സെമസ്റ്ററിൽ ഒരു കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നു ഇതിന് ഇനിപ്പറയുന്ന മുൻവ്യവസ്ഥകൾ ഉണ്ട് വിദ്യാർത്ഥികൾ മുൻവ്യവസ്ഥാ കോഴ്സ് എടുത്തില്ലെങ്കിൽ അവർക്ക് ഇത് കോഴ്സ് എ മനസ്സിലാക്കാൻ പോലും കഴിയില്ല അത് ചെയ്യാൻ അവർക്ക് അനുമതിയുണ്ടെങ്കിലും അവർക്ക് മുൻകൂട്ടി അറിവില്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പലപ്പോഴും ഈ കോഴ്സ് A മറ്റേതെങ്കിലും കോഴ്സിന് B മുൻവ്യവസ്ഥയാകാം നാലാം സെമസ്റ്റർ കോഴ്സ് അഞ്ചാം സെമസ്റ്റർ കോഴ്സിനോ ആറാം സെമസ്റ്റർ കോഴ്സിനോ മുൻവ്യവസ്ഥയായിരിക്കാമെന്ന് നമുക്ക് പറയാം ഒരാൾക്കു ആ ക്രമം എഴുതാൻ അറിയുന്ന പോലെ തന്നെ കോഴ്സിന്റെ സന്ദർഭം കുറച്ച് വാചകങ്ങളിലൂടെ വിശദീകരിക്കാനും കഴിയണം കോഴ്സിന്റെ വിശാലമായ ലക്ഷ്യവും പ്രോഗ്രാമിന് അതിനുള്ള പ്രസക്തിയും എഴുതുക കോഴ്സിന്റെ വിശാലമായ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞ് 2 അല്ലെങ്കിൽ 3 വാക്യങ്ങൾ എഴുതുക എന്തുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിക്കുന്നത് എന്താണ് അവസാനം പഠിക്കുന്നത് ഒന്നോ രണ്ടോ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കോഴ്സ് പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് ഇത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ചത് ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു കോഴ്സായിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ബ്രാഞ്ചിൽ ഈ കോഴ്സ് പഠിക്കുന്നത് അതിനാൽ ആരെങ്കിലും പൊതുവായി വിശദീകരിക്കേണ്ടിവരും പാഠ്യപദ്ധതി ഡിസൈനർമാർ അത് വിശദീകരിക്കണം അല്ലെങ്കിൽ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്ന അധ്യാപകന് പ്രോഗ്രാമിന്റെ കോഴ്സിന്റെ പ്രസക്തിയെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കാൻ കഴിയും വിശാലമായ അർത്ഥത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെന്ന് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ പ്രോഗ്രാം വിട്ടതിനുശേഷം എനിക്ക് ഡിഗ്രി ലഭിക്കുമ്പോൾ ഡിഗ്രി ലഭിക്കാൻ അത് ആവശ്യമാണ് ഞാൻ ചേരാൻ സാധ്യതയുള്ള തൊഴിലിൽ ഇത് കൊണ്ട് ശരിക്കും പ്രയോജനമുണ്ടോ ഈ അറിവ് കൃത്യമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കോഴ്സിന്റെ പ്രാധാന്യം ഒരു ഖണ്ഡികയിൽ അധ്യാപകന്റെ വാക്കുകളിൽ വിശദീകരിക്കണം തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥിക്ക് എത്രത്തോളം ബോധ്യമുണ്ടോ അത്രയധികം അവൻ പ്രചോദിതനാകാൻ സാധ്യതയുണ്ട് ഇത് വിശദീകരിക്കുന്നത് കോഴ്സിലെ വിദ്യാർത്ഥിയുടെ ശ്രദ്ധ ആകർഷിക്കും ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിൽ ഞാൻ എന്ത് അനുമാനങ്ങൾ നടത്തുന്നു പ്രധാനപ്പെട്ടതെന്താണെന്നോ അതിന്റെ ആപ്ലിക്കേഷനുകൾ എന്താണെന്നോ പോലെ തുടർന്ന് ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ ഞാൻ ഇൻസ്ട്രക്ഷനുകൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ അത്തരം സമീപനം സ്വീകരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കണം ഈ 5 ഘടകങ്ങളെല്ലാം 500 മുതൽ 1500 വാക്കുകളിലേക്ക് നയിക്കുന്ന നിരവധി ഖണ്ഡികകളായി വിശദീകരിക്കണം ഒരാൾ കുറച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ കോഴ്സ് സന്ദർഭവും അവലോകനവും നന്നായി വിശദീകരിക്കാം ഇതിന് വിഷയങ്ങളുടെ പട്ടിക നൽകേണ്ടതില്ല അത് ഈ കോഴ്സ് സന്ദർഭത്തിന്റെയും അവലോകനത്തിന്റെയും ഭാഗമല്ല മാത്രമല്ല അത് മറ്റൊരു സ്ഥലത്ത് വരും വിദ്യാർത്ഥി കോഴ്സ് സന്ദർഭവും അവലോകനവും വായിക്കുമ്പോൾ അവൻ എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നതെന്നും അത് തന്റെ തൊഴിലിൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസിലാക്കാൻ സാധിക്കുന്നു കൺസെപ്റ്റ് മാപ്പ് സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതിനുമുമ്പ് മൊഡ്യൂൾ 1 ൽ നമ്മൾ ഇതിനകം തിരിച്ചറിഞ്ഞ അറിവിന്റെ വിഭാഗങ്ങളുണ്ടെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് വസ്തുതാപരമായ ആശയപരമായ നടപടിക്രമ മെറ്റാകോഗ്നിറ്റീവ് തുടങ്ങിയ പൊതുവായ വിഭാഗങ്ങൾ കൂടാതെ എഞ്ചിനീയറിംഗ് പരിജ്ഞാനം അടിസ്ഥാന ഡിസൈൻ തത്വങ്ങൾ മാനദണ്ഡങ്ങളും സവിശേഷതകളും പ്രായോഗിക പരിമിതികൾ ഡിസൈൻ ഉപകരണങ്ങൾ എന്നിവയുടെ വിൻസെന്റി വിഭാഗങ്ങളും ഉൾപ്പെടുന്നു ഒരു കോഴ്സ് ഈ വിജ്ഞാന വിഭാഗങ്ങളിൽ ഏതിന്റെയും കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും ഉദാഹരണത്തിന് വസ്തുതാപരമായ വീക്ഷണകോണിൽ നിന്ന് എനിക്ക് ഇത് കാണാൻ കഴിയും വസ്തുതകൾ എന്താണെന്നും ഞാൻ പഠിക്കാൻ പോകുന്ന വസ്തുതകൾ എന്തൊക്കെയാണെന്നും ഞാൻ എടുക്കാൻ പോകുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ കോഴ്സ് സംഘടിപ്പിക്കുന്നു പക്ഷേ സാധാരണയായി അതല്ല ചെയ്യാറുള്ളത് ആശയപരമായ അറിവ് അല്ലെങ്കിൽ നടപടിക്രമ പരിജ്ഞാനം അല്ലെങ്കിൽ ആശയപരവും നടപടിക്രമപരവുമായ അറിവ് എന്നിവയുടെ സംയോജനമനുസരിച്ച് ഒരു കോഴ്സ് സംഘടിപ്പിക്കാൻ കഴിയും തത്വത്തിൽ ഇത് 3 ഇനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ കഴിയും കൺസെപ്റ്റ് മാപ്പ് ആശയപരമായ അറിവ് സംഘടിപ്പിക്കുന്നതിനും പ്രതിനിധീകരിക്കുന്നതിനുമുള്ള ഒരു ഗ്രാഫിക്കൽ ഉപകരണമാണ് അതായത് കോഴ്സിൽ പ്രധാനമെന്ന് നമ്മൾ കരുതുന്ന എല്ലാ ആശയങ്ങളും നമ്മൾ തിരിച്ചറിയുന്നു ഒന്നിനെ മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കുന്ന ചില ശ്രേണിക്രമത്തിൽ അവ ചിട്ടപ്പെടുത്തുക അത് ചിത്രങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുക ഈ ഉപകരണം 25 വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലോറിഡ സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഐഎച്ച്എംസി എന്ന് വിളിക്കുന്ന കേന്ദ്രം ഇത് അവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരാൾക്ക് ആ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനാകും ഇത് ഇപ്പോഴും ജനപ്രിയമാണ് അത് ഇപ്പോഴും തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ധാരാളം സവിശേഷതകൾ ഉണ്ട് പ്രസക്തമായ ചില സവിശേഷതകൾ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ കൺസെപ്റ്റ് മാപ്പിൽ ആശയങ്ങൾ ഉൾപ്പെടുന്നു ലൈൻ ലിങ്കിംഗ് പശ്ചാത്തല ആശയങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ഒരു വരിയിലൂടെ മാത്രം ബന്ധിപ്പിക്കുന്നു കാണിക്കുന്നു തുടർന്ന് 2 ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു ലിങ്കിംഗ് ശൈലി എഴുതുക കൺസെപ്റ്റ് മാപ്പിൽ 3 ഘടകങ്ങൾ മാത്രമേയുള്ളൂ നമ്മൾ ഇപ്പോൾ ഉദാഹരണം കാണും കൺസെപ്റ്റ് മാപ്പ് നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തും മാപ്പിന്റെ മുകൾഭാഗത്തുള്ള ശ്രേണിക്രമത്തിൽ ഏറ്റവും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പൊതുവായ ആശയങ്ങളും ചുവടെയുള്ള ശ്രേണിക്രമത്തിൽ കൂടുതൽ നിർദ്ദിഷ്ടവും അത്ര പൊതുവല്ലാത്തതുമായ ആശയങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ ഒരു കൺസെപ്റ്റ് മാപ്പിന് നിരവധി ലെയറുകളുണ്ടാകാം പക്ഷേ വളരെയധികം ലെയറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അൽപ്പം അദൃശ്യമാണെന്ന് തോന്നിയേക്കാം വളരെ ലളിതവും ഉപയോഗപ്രദവുമാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ലളിതമായ വിദ്യകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു പ്രത്യേക ഡൊമെയ്ൻ പരിജ്ഞാനത്തിനായുള്ള ശ്രേണിക്രമീകരണ ഘടനയും ആ അറിവ് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് സാർവത്രികത പോലെ ഒന്നുമില്ല എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ആ ആശയം പൂർണ്ണമായി മനസിലാക്കാൻ എന്താണ് സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നത് സാധാരണയായി കോഴ്സിൽ ഉത്തരം തേടുന്ന ഒരു ചോദ്യം എഴുതുന്നത് നല്ലതാണ് ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് നോക്കാം ഞാൻ ഡിജിറ്റൽ സിസ്റ്റങ്ങളെക്കുറിച്ച് ഒരു കോഴ്സ് പഠിപ്പിക്കുന്നു ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ചോദ്യം എന്താണ് ചിലതരം ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു അത് എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് ഞാൻ മനസിലാക്കേണ്ടതുണ്ട് ഏതുതരം ഡിജിറ്റൽ സംവിധാനങ്ങൾ കോമ്പിനേഷണൽ സീക്വൻഷൽ സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുവെന്നത് ഞാൻ പറഞ്ഞ് വ്യക്തമാക്കും ഞാൻ രൂപകൽപ്പന ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന സീക്വൻഷണൽ സർക്യൂട്ടുകൾ കൂടുതൽ വിശേഷിപ്പിക്കാൻ ഞാൻ താൽപ്പര്യപ്പെട്ടേക്കാം ഒരു ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കോഴ്സിന്റെ വിശാലമായ ലക്ഷ്യമായി നാം പൊതുവായി എഴുതുന്നതിലൂടെ നമുക്ക് കൺസെപ്റ്റ് മാപ്പ് വരയ്ക്കാൻ കഴിയും ഇന്റർനെറ്റിൽ ധാരാളം ലേഖനങ്ങൾ ലഭ്യമാണ് ഒരാൾക്ക് അത് വായിക്കാനും കൺസെപ്റ്റ് മാപ്പ് മനസ്സിലാക്കാനും കഴിയും ഒരു കോഴ്സ് സൃഷ്ടിക്കുന്നതിനുള്ള മികച്ച ഉപകരണമാണ് കൺസെപ്റ്റ് മാപ്പ് എന്നാണ് എന്റെ അഭിപ്രായം മസ്തിഷ്കപ്രക്രിയ പോലുള്ള ആശയങ്ങൾ സൃഷ്ടിക്കാൻ കൺസെപ്റ്റ് മാപ്പുകൾ ഉപയോഗിക്കാം സങ്കീർണ്ണമായ ഘടനകൾ ദൈർഘ്യമേറിയ ടെസ്റ്റുകൾ ഹൈപ്പർമീഡിയ വലിയ വെബ്സൈറ്റുകൾ സങ്കീർണ്ണമായ ആശയങ്ങൾ ആശയവിനിമയം നടത്തുക പുതിയതും പഴയതുമായ അറിവുകൾ വ്യക്തമായി സമന്വയിപ്പിച്ച് പഠനത്തെ സഹായിക്കുക തെറ്റിദ്ധാരണ മനസ്സിലാക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുക പോലെയുള്ളവയും ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ ഒരു കോൺസെപ്റ്റ് മാപ്പ് വരയ്ക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതിലൂടെ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് കണ്ടെത്താനാകും ഒരു കോഴ്സിന്റെ ഘടകങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് കൺസെപ്റ്റ് മാപ്പ് മറ്റ് തരത്തിലുള്ള മാപ്പുകൾ ഉണ്ട് മൈൻഡ് മാപ്പ് ടോപ്പിക് മാപ്പ് തുടങ്ങിയവയുണ്ട് കൺസെപ്റ്റ് മാപ്പിനേക്കാൾ ഘടനാപരമായതാണ് മൈൻഡ് മാപ്പ് അതിന് അതിന്റേതായ ഉപയോഗങ്ങളുണ്ട് കൺസെപ്റ്റ് മാപ്പ് കുറച്ചുകൂടി ചിട്ടയായി ചെയ്തതാണെന്ന് ഞങ്ങൾ പറയുന്നു ഇത് ഘടനാപരമായിരിക്കുന്നതിനാൽ അതിന് പരിമിതികളുണ്ട് വിഷയ മാപ്പുകൾ കൂടുതൽ ഘടനാപരമാണ് വിഷയ മാപ്പുകളെക്കുറിച്ചും മൈൻഡ് മാപ്പുകളെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ടതില്ല ഇവിടെ പ്രധാനമായും കൺസെപ്റ്റ് മാപ്പുകൾ നമ്മൾ നോക്കും ഒരു കൺസെപ്റ്റ് മാപ്പിലെ രണ്ട് ആശയങ്ങൾ ഒരു ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒപ്പം ആ ലിങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊപോസിഷൻ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില സാമ്പിൾ പ്രൊപോസിഷനുകൾ ഇവയാണ് പ്രതിനിധീകരിക്കുക കാണിക്കുക ഉൾക്കൊള്ളുക വ്യത്യാസപ്പെടുക മൊഡ്യൂൾ 1 ൽ അല്ലെങ്കിൽ CO കൾ എഴുതുന്നതിൽ നമ്മൾ സംസാരിച്ച ആക്ഷൻ ക്രിയകളല്ല ഇവ ഇവ രണ്ട് ആശയങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന പ്രൊപോസിഷനുകൾ മാത്രമാണ് ഉദാഹരണങ്ങൾ നോക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇത് കാണാൻ വളരെ വ്യക്തമായിരിക്കില്ല പക്ഷേ ഇത് കുറിപ്പുകളുടെ ഒരു ഭാഗമായി ഞങ്ങൾ നൽകും അതിനാൽ ഇത് വിശദമായി കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഉദാഹരണത്തിന് ഇത് സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഒരു കോഴ്സാണ് ആ ബോക്സിനുള്ളിൽ എഴുതിയതെന്തും ഒരു ആശയം അല്ലെങ്കിൽ ആശയങ്ങളുടെ പട്ടികയാണ് നിങ്ങൾക്ക് ബോക്സിനുള്ളിൽ ഒരു നടപടിക്രമം സ്ഥാപിക്കാൻ കഴിയില്ല നിങ്ങൾ ആദ്യമായി കൺസെപ്റ്റ് മാപ്പുകളിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റ് ഇതാണ് ബോക്സിനുള്ളിൽ നിങ്ങൾ ഇടുന്നതെന്തും ഒരു ആശയമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ഇവിടെ ഏറ്റവും ഉയർന്ന ആശയം സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഇവിടെയുള്ള പ്രൊപോസിഷൻ ഈസ് ആൻ ആണ് അതിനാൽ ഞാൻ ഇത് വായിക്കുമ്പോൾ അത് എന്ത് തന്നെ ആയാലും അതിന് അർഥം ഉണ്ടായിരിക്കെണം ഉദാഹരണത്തിന് "സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നത് ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഇന്റർഫേസാണ് " എന്ന് പറയുന്നു ഞാൻ താഴേക്ക് പോകുമ്പോൾ "ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഇന്റർഫേസ്" എന്നത് അസംബ്ലറുകൾ ലോഡറുകൾ ലിങ്കറുകൾ മാക്രോ പ്രോസസ്സറുകൾ കംപൈലറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ടെക്സ്റ്റ് എഡിറ്ററുകൾ assemblers loaders linkers macro processors compilers operating systems and text editors എന്നിവ ഉൾക്കൊള്ളുന്നു ഞങ്ങൾ 6 ആശയങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കി ഈ 6 എണ്ണം 6 വ്യത്യസ്ത ബോക്സുകളായി കാണിക്കാൻ കഴിയും പക്ഷേ ഞാൻ അവയെ 6 വ്യത്യസ്ത ബോക്സുകളായി വികസിപ്പിക്കാൻ തുടങ്ങിയാൽ മാപ്പ് താറുമാറായതും സങ്കീർണ്ണവുമാകും അതിനാൽ അവ ഒരേ ശ്രേണിയിലാണെന്ന് സൂചിപ്പിക്കുന്നതിന് ഞാൻ അവയെ ഒരൊറ്റ ബോക്സിൽ പട്ടികപ്പെടുത്തുന്നു ഈ കൺസെപ്റ്റ് മാപ്പിൽ 4 ലെവലുകൾ ഉണ്ട് ഓരോ ലെവലും ഒരു വരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങൾ കൺസെപ്റ്റ് മാപ്പ് എഴുതാൻ എങ്ങനെ ആരംഭിച്ചാലും അവസാനം ഇത് വൃത്തിയായി എഴുതാനും ഇതുപോലുള്ള ഒരു ഘടനയിലേക്ക് കൊണ്ടുവരാനും കഴിയും സിസ്റ്റം സോഫ്റ്റ്വെയറിൽ അസംബ്ലറുകൾ ഉൾപ്പെടുന്നു കൂടാതെ അസംബ്ലർകൾക്ക് മെഷീൻ ആശ്രിത സവിശേഷതകളും മെഷീൻ സ്വതന്ത്ര സവിശേഷതകളും ഉണ്ട് അസംബ്ലർകൾ സിംഗിൾ പാസ് അല്ലെങ്കിൽ മൾട്ടി പാസ് അസംബ്ലർ ആകാം സിംഗിൾ പാസും മൾട്ടി പാസും രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ് മെഷീൻ ആശ്രിത സവിശേഷതകൾ ഒരു ആശയമാണ് മെഷീൻ സ്വതന്ത്ര സവിശേഷതകൾ മറ്റൊരു ആശയമാണ് അതിനാൽ അങ്ങനെയാണ് നമ്മൾ എല്ലാ ആശയങ്ങളും ചിട്ടപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളിലൊന്നാണ് ഈ കോഴ്സിൽ ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ "കംപൈലറുകൾ" പോലും ഒരു സ്വതന്ത്ര കോഴ്സായി വാഗ്ദാനം ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ അല്ലെങ്കിൽ കോഴ്സിന്റെ വ്യാപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും ഈ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ കൺസെപ്റ്റ് മാപ്പിന്റെ മറ്റൊരു സവിശേഷത നിങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ചില അന്തർലീനമായ അല്ലെങ്കിൽ വ്യക്തമായ ക്രമം ഉണ്ടാകാം അതിനർത്ഥം ഞാൻ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഈ ഭാഗം അവതരിപ്പിക്കാൻ ശ്രമിക്കും തുടർന്ന് ഞാൻ അസംബ്ലർകളുടെ അടുത്തെത്തും ഞാൻ എത്ര ഇൻസ്ട്രക്ഷനുകൾ എടുക്കുന്നു എന്നത് പിന്നീട് വരുന്നു എന്നാൽ ഇതാണ് ഞാൻ പോകുന്ന ക്രമം വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്ന ശ്രേണിയെ ഇടത്തുനിന്ന് വലത്തോട്ട് പ്രതിനിധീകരിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കുന്നത് കൺസെപ്റ്റ് മാപ്പ് സൃഷ്ടിക്കുമ്പോൾ തൃപ്തികരമായ ഒരു കൺസെപ്റ്റ് മാപ്പ് സൃഷ്ടിക്കുന്നതിന് 2 അല്ലെങ്കിൽ 3 ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പുനൽകാൻ കഴിയുന്ന ഒരു കാര്യം എവിടെയാണെങ്കിലും കൺസെപ്റ്റ് മാപ്പ് വരയ്ക്കുന്നതിന് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ വളരെ രസകരവും സംതൃപ്തവുമായ ഒരു വ്യായാമമായിരുന്നു എന്ന് വൈദ്യുതകാന്തികക്ഷേത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ സൃഷ്ടിച്ച മാപ്പാണിത് ഈ വിഷയം നോക്കാനുള്ള മനോഹരമായ മാർഗ്ഗമാണിത് "ഇലക്ട്രിക് ചാർജുകൾ" പ്രധാന ഇനമാണ് കൂടാതെ ഇലക്ട്രിക് ചാർജുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ചാർജുകൾ ചലിക്കുന്ന ചാർജുകൾ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്ന ചാർജുകൾ ആകാം അങ്ങനെയാണ് മുഴുവൻ കോഴ്സ് ഘടനയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും താൻ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം വിദ്യാർത്ഥി മനസ്സിലാക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാറ്റിക് ചാർജുകൾ നോക്കുകയും തുടർന്ന് ചലിക്കുന്ന ചാർജുകളിലേക്ക് വരികയും ചെയ്യുന്നു ചലിക്കുന്ന ചാർജുകളുടെ ചില സവിശേഷതകൾ സ്റ്റാറ്റിക് ചാർജുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് വിദ്യാർത്ഥിക്ക് വിവരിക്കാൻ കഴിയും ഒരു ഗ്രാഫിക്കൽ മാതൃക വിദ്യാർത്ഥിക്ക് അവന്റെ അറിവ് ആന്തരികമായി ചിട്ടപ്പെടുത്തിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നു അവന് ഫലപ്രദമായി പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും സിമാപ് ടൂൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള സോഫ്റ്റ്വെയർ ആണ് മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മാത്രമല്ല കൺസെപ്റ്റ് മാപ്പ് വരയ്ക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ എടുക്കൂ പ്രോഗ്രാം എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ എഴുതാം തുടങ്ങിയവയുടെ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല ഇതെല്ലാം ഗ്രാഫിക് ആണ് 5 മിനിറ്റ് ആമുഖം ആവശ്യമാണ് മാത്രമല്ല Cmap സൃഷ്ടിക്കാൻ ആരംഭിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരണത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ശ്രേണിപരമായി ചിട്ടപ്പെടുത്തിയ ഒരു മികച്ച Cmap സൃഷ്ടിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന നിരവധി എഡിറ്റിംഗ് സവിശേഷതകൾ ഇതിലുണ്ട് നിങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകാൻ കഴിയും അവ ഓർഗനൈസ് ചെയ്യാൻ കഴിയും മാപ്പിൻറെ ഗുണനിലവാരം ഉയർത്തുമെന്ന് നിങ്ങൾ കരുതുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും നിങ്ങൾക്ക് നൽകിയ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണത്തെ അടിസ്ഥാനമാക്കിയോ Cmap വരയ്ക്കാൻ കഴിയും ഉദാഹരണത്തിന് 2 അധ്യാപകർക്ക് നൽകിയ ഒരേ ഉള്ളടക്കം സമാനമായവയേക്കാൾ അല്പം വ്യത്യസ്തമായ 2 കൺസെപ്റ്റ് മാപ്പുകളിലേക്ക് നയിച്ചേക്കാം Cmap വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു ഫാക്കൽറ്റി അവരുടെ കോഴ്സുകളുടെ Cmaps സൃഷ്ടിക്കുന്നത് വളരെ ആസ്വാദ്യകരവും സമ്പുഷ്ടവുമായ പ്രവർത്തനമാണെന്ന് കണ്ടെത്തി കൺസെപ്റ്റ് മാപ്പ് അപര്യാപ്തമാവുകയാണെങ്കിൽ അതിൽ വളരെയധികം ഘടകങ്ങളോ വളരെയധികം ലെയറുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നിലധികം മാപ്പുകളായി വിഭജിച്ച് പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും ഒരു ബോക്സിലേക്ക് ഒരു മാപ്പ് ലിങ്കുചെയ്യുന്നതിലൂടെ അതിൽ ഇരട്ട ക്ലിക്കുചെയ്യുന്നതിലൂടെ മറ്റ് മാപ്പ് മുന്നിൽ തുറക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട് ഇതിൽ അതിശയകരമായ സവിശേഷതകളുണ്ട് അതേപോലെ ഈ ടൂൾ ഡൌൺലോഡ് ചെയ്യാൻ സൌജന്യമാണ് ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ Cmap ടൂൾ തിരയാം അതിലേക്ക് പ്രവേശനം നേടുക ഡൌൺലോഡ് ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിക്കുക ഫയൽ വലുപ്പം ഏകദേശം 100 MB ആണ് അതിനാൽ ഡൌൺലോഡുചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കും കോഴ്സ് ഔട്കമുകൾ കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്നതിനെ കോഴ്സ് ഔട്കമുകൾ അവതരിപ്പിക്കുന്നു TALE ന്റെ മൊഡ്യൂൾ 1 ൽ കോഴ്സ് ഔട്കമുകൾ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ വിശദമായി പരിഗണിച്ചു അതിനാൽ കോഴ്സ് ഔട്കമുകൾ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച് ഈ സമയത്ത് വിശദീകരിക്കുന്നില്ല കോഴ്സ് ഔട്ട്കം പ്രസ്താവനയിൽ ഈ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം പ്രവർത്തന ക്രിയ അറിവിന്റെ വിഭാഗങ്ങൾ ഓപ്ഷണലായ വ്യവസ്ഥകൾ കൂടാതെ ഓപ്ഷണലായ മാനദണ്ഡങ്ങൾ അവ ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റി ടാക്സോണമി ചട്ടക്കൂടിൽ എഴുതിയിട്ടുണ്ട് കൂടാതെ നടപടിക്രമങ്ങൾ വിശദമായി TALE ന്റെ മൊഡ്യൂൾ 1 ൽ അവതരിപ്പിച്ചിരിന്നു മൊഡ്യൂൾ 2 ലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും മൊഡ്യൂൾ 1 നെക്കുറിച്ച് അറിവുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ സമയത്ത് കോഴ്സ് ഔട്കമുകൾ എങ്ങനെ എഴുതാം എന്നും ടാക്സോണമിയിലെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആവർത്തിക്കാൻ പോകുന്നില്ല 3 1 0 ചിലപ്പോൾ ലാബ് സംയോജിപ്പിക്കുമ്പോൾ 3 0 1 കൂടാതെ 3 0 0 ക്രെഡിറ്റുകൾ ഉള്ള കോഴ്സുകൾക്ക് സിഒകളുടെ എണ്ണം 6 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 2 ആയിരിക്കണമെന്നും ഞങ്ങൾ പറഞ്ഞു ക്രെഡിറ്റുകളുടെ എണ്ണം കൂടുതലോ കുറവോ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന ഔട്കമുകളുടെ എണ്ണവും ക്രമീകരിക്കാൻ കഴിയും കോഴ്സ് ഔട്ട്കമിൻറെ പിഒകളും പിഎസ്ഒകളും അഭിസംബോധന ചെയ്തുകൊണ്ട് ടാഗ് ചെയ്യണമെന്നും സൂചിപ്പിച്ചിരുന്നു ഒരു സിഒയുടെ കോഗ്നിറ്റീവ് ലെവൽ എന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ആക്ഷൻ ക്രിയയുമായി ബന്ധപ്പെട്ട കോഗ്നിറ്റീവ് ലെവൽ അർത്ഥമാക്കുന്നു കൂടാതെ താഴ്ന്ന കോഗ്നിറ്റീവ് ലെവലുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല വിജ്ഞാന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് 8 വിജ്ഞാന വിഭാഗങ്ങളിൽ 4 5 വിഭാഗങ്ങൾ വരെ പരിഗണിക്കാം നിങ്ങളുടെ കൈവശമുള്ള ക്ലാസ് ലബോറട്ടറി ട്യൂട്ടോറിയൽ ഫീൽഡ് സെഷനുകളുടെ എണ്ണം സെഷനുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടുന്നു പല സർവകലാശാലകളും ഒരു കോഴ്സിന്റെ സിലബസ് യൂണിറ്റുകളായി അവതരിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിഒകളുടെ എണ്ണം യൂണിറ്റുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കണമെന്ന് ചിലർ കരുതുന്നു ടെയിൽ മൊഡ്യൂൾ 1 ൽ ഞങ്ങൾ വിശദീകരിച്ചതുപോലെ സിലബസിന്റെ യൂണിറ്റൈസേഷന്റെ ആവശ്യമില്ല അത് ഭരണപരമായ സൌകര്യങ്ങളിലൊന്നാണ് കൂടാതെ ഔട്കങ്ങളെഴുതുന്നതിൽ പെഡഗോഗിക് സ്വാധീനവുമില്ല അതിനർത്ഥം ഒരു ഔട്ട്കം യൂണിറ്റുകളിലുടനീളം പോകാം അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഒന്നിലധികം ഔട്കമുകൾ ഉണ്ടായേക്കാം ഔട്കമുകളുമായി യൂണിറ്റുകൾ കലർത്തരുത് CO കളുടെ എണ്ണം ഉള്ളടക്കത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും അനുസരിച്ച് തീരുമാനിക്കണം Cmaps ഉം CO കളും CO's എഴുതുന്നതിന് മുൻപ് സീമാപ്സ് വരക്കണമെന്നില്ല Cmaps വരയ്ക്കുന്നത് കോഴ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യത്തെ വളരെയധികം സഹായിക്കുകയും നല്ല CO കൾ എഴുതാൻ സഹായിക്കുകയും ചെയ്യും ഇത് വൈദ്യുതകാന്തിക കോഴ്സിന്റെ സാമ്പിൾ സി കളാണ് നിങ്ങൾ സിഒ എഴുതുകയും അത് അഭിസംബോധന ചെയ്യുന്ന പിഒകളും പിഎസ്ഒകളും കോഗ്നിറ്റീവ് ലെവൽ വിജ്ഞാന വിഭാഗങ്ങൾ ക്ലാസ് സെഷനുകളുടെ എണ്ണം ട്യൂട്ടോറിയൽ മണിക്കൂറുകളുടെ എണ്ണം എന്നിവ ഉപയോഗിച്ച് ടാഗ് ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് നമ്മൾ വൈദ്യുതകാന്തിക കോഴ്സിനെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നത് ഒരു സഹപ്രവർത്തകനുമായി സഹകരിച്ച് നിങ്ങളുടെ കോഴ്സിന്റെ ഒരു കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കുക ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇത് തികച്ചും ആസ്വാദ്യകരമായ ഒരു വ്യായാമമാകും സൂചിപ്പിച്ച നടപടിക്രമമനുസരിച്ച് ടാഗിംഗിനൊപ്പം നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങളുടെ കോഴ്സിന്റെ CO കൾ എഴുതുക ഈ അഭ്യാസം ഇതിനകം തന്നെ മൊഡ്യൂൾ 1 ൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യണമെന്നില്ല കോഴ്സ് ഔട്ട്കം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ പട്ടികയിൽ എഴുതണം നിങ്ങളുടെ വ്യായാമത്തിന്റെ ഫലങ്ങൾ ഞങ്ങളുമായി പങ്കിടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരാകും നന്ദി അടുത്ത യൂണിറ്റിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട് അനലൈസ് ഘട്ടത്തിന്റെ ശേഷിക്കുന്ന ഉപപ്രക്രിയകൾ നമ്മൾ പരിശോധിക്കും 4 അല്ലെങ്കിൽ 5 മറ്റ് ഉപ പ്രക്രിയകളുണ്ട് അത് ഞങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ ചിട്ടയായ രീതിയിൽ അനലൈസ് ഘട്ടം പൂർത്തിയാക്കപ്പെടുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി